ശരി ഈ പ്രത്യേക മൊഡ്യൂളിലേക്ക് സ്വാഗതം അവസാന മൊഡ്യൂളിൽ നമ്മൾ കണ്ടത് എവിടെ വരെയാണ് നിരവധി ഘടകങ്ങൾ അളക്കാൻ ഒരു മൾട്ടിമീറ്റർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ കണ്ടു അതായത് വ്യതിരിക്തമായ ഘടകങ്ങൾക്ക് വോൾട്ടേജ് അളക്കാൻ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിക്കാം നമ്മൾ ഒരു വേരിയബിൾ എസി അല്ലെങ്കിൽ വേരിയാക്ക് കണ്ടു എസി വോൾട്ടേജ് മാറ്റാൻ വേരിയാക്ക് ഉപയോഗിക്കാം അത് ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമ്മൾക്ക് അളക്കാൻ കഴിഞ്ഞു ആ പ്രത്യേക മൊഡ്യൂളിന്റെ അവസാനം നമ്മൾക്ക് ആവൃത്തി കാണാനും കഴിഞ്ഞു അത് ഏകദേശം 49 8 അളക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു 50 ഹെർട്സ് ചുറ്റുമുള്ള ആവൃത്തികളെ ലൈൻ ഫ്രീക്വൻസി എന്നും വോൾട്ടേജ് 230 വോൾട്ട് എന്നും വിളിക്കുന്നു അതിനാൽ ഇന്ത്യയിലെ വോൾട്ടേജ് സിംഗിൾ ഫേസ് 230 വോൾട്ട് എസി ലൈൻ ഫ്രീക്വൻസി 50 ഹെർട്സ് എന്നിവയാണ് ഈ പ്രത്യേക മൊഡ്യൂളിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ വൈദ്യുതി വിതരണം എന്നിവ കാണാം വൈദ്യുതി വിതരണം എസി വൈദ്യുതി വിതരണമോ ഡിസി വൈദ്യുതി വിതരണമോ ആകാം അപ്പോൾ എന്താണ് ഡിസി എന്താണ് എസി ഈ പ്രത്യേക ചോദ്യത്തിന് വളരെ അപരിഷ്കൃതമായ രീതിയിൽ ഉത്തരം നൽകിയാൽ ഡിസിക്ക് 0 ഫ്രീക്വൻസി ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എസി ഫ്രീക്വൻസി മാറ്റാൻ കഴിയും നമ്മൾ എസി അളക്കുമ്പോൾ നിങ്ങൾക്ക് 50 ഹെർട്സ് ആവൃത്തി ഉണ്ട് എന്നാൽ നിങ്ങൾ ഡിസി അളക്കുകയാണെങ്കിൽ അതിന് 0 ഹെർട്സ് നേർരേഖ ഉണ്ടായിരിക്കും അതിനാലാണ് നമ്മൾ DC യെ ഒരു നേർരേഖയിലൂടെ സൂചിപ്പിക്കുന്നത് സൈൻ തരംഗത്തിലൂടെ നമ്മൾ എസിയെ സൂചിപ്പിക്കുന്നു നമുക്ക് ഒരു ത്രികോണം അല്ലെങ്കിൽ ചതുര തരംഗത്തിലൂടെ എസിയെ സൂചിപ്പിക്കാൻ കഴിയും അതിനാൽ എസി ആൾട്ടർനേറ്റീവ് കറന്റും ഡിസി ഡയറക്ട് കറന്റുമാണ് ഇന്ന് ഈ പ്രത്യേക മൊഡ്യൂളിൽ നമുക്ക് DC വൈദ്യുതി വിതരണം നോക്കാം ഇത് ഇടത് ഡിസി വൈദ്യുതി വിതരണമാണ് ഇത് വലത് മറ്റൊരു ഡിസി വൈദ്യുതി വിതരണമാണ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് വലത് സ്ഥിര ഡിസി പവർ സ്രോതസ്സാണ് ഇത് വളരെ പഴയതാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ രണ്ട് ഊർജ്ജ വിതരണവും സൂക്ഷിച്ചിരിക്കുന്നത് ധാരാളം സർവകലാശാലകൾ ഇപ്പോഴും ഈ ഡിസി വൈദ്യുതി വിതരണം ഉപയോഗിക്കാം അല്ലെങ്കിൽ നൂതന പതിപ്പ് ഉപയോഗിച്ചേക്കാം ഇപ്പോൾ ഈ ഡിസി വൈദ്യുതി വിതരണത്തിൽ എന്താണ് എഴുതിയതെന്ന് ആദ്യം കാണണം അതിനാൽ ആദ്യം നമ്മൾ CV FB എന്നിവ കാണാം പിന്നീട് നമ്മൾക്ക് ക്രമീകരിക്കാവുന്ന പ്ലസ് 15 വോൾട്ട് മൈനസ് 15 വോൾട്ട് എന്നിവ ഉണ്ട് ഒരു മൈനസ് ഉണ്ട് പ്ലസ് ഉണ്ട് പൊതുവായതും ഉണ്ട് ഒരു ഫ്യൂസ് ഉണ്ട് തുടർന്ന് ഒരു മെയിൻ ഉണ്ട് അതിനാൽ ഞാൻ ഈ ഉപകരണം 230 വോൾട്ട് എസിയുമായി ബന്ധിപ്പിച്ചു എന്നിരിക്കട്ടെ ഞാൻ അത് സ്വിച്ചുചെയ്യുന്നു അതിനാൽ ഞാൻ ഇത് കണക്റ്റുചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അത് ഓണാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ എൽഇഡി ലൈറ്റ് കാണാൻ കഴിയും നമുക്ക് എങ്ങനെ വോൾട്ടേജ് അളക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കാണും എന്നോടൊപ്പം സീതാറാം ഇവിടെയുണ്ട് ഈ മൾട്ടിമീറ്ററിനെ ഡിസി വൈദ്യുതി വിതരണവുമായി എങ്ങനെ ബന്ധിപ്പിക്കുമെന്ന് അദ്ദേഹം നിങ്ങളെ കാണിക്കും അതിനാൽ നമ്മൾക്ക് ഇവിടെ മൾട്ടിമീറ്റർ ഉള്ള ഡിസി ഉണ്ട് അദ്ദേഹം അത് ഡിസി വൈദ്യുതി വിതരണവുമായി ബന്ധിപ്പിക്കും ശരി എന്താണ് വോൾട്ടേജ് 93 വോൾട്ട് ശരിയല്ലേ ഇപ്പോൾ എനിക്ക് ഈ വോൾട്ടേജ് മാറ്റണമെങ്കിൽ അത് മാറ്റുന്നതിനുള്ള മറ്റൊരു മാർഗം എന്താണ് സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ച് എനിക്ക് ഇത് മാറ്റാൻ കഴിയും കാരണം ഇത് കുറച്ച് പഴയതാണ് മാറ്റം വരുത്തുമ്പോൾ നമുക്ക് മാറ്റം കാണാൻ കഴിയും ഇത് മറ്റൊരു ദിശയിലേക്ക് മാറ്റുക വോൾട്ടേജിൽ ഒരു മാറ്റമുണ്ട് സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ച് നോബ് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് വോൾട്ടേജ് മാറ്റാൻ കഴിയും ഇപ്പോൾ മൈനസ് 15 എന്താണ് നിങ്ങൾക്ക് മൈനസ് 15 വോൾട്ട് അളക്കണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അളക്കാൻ കഴിയും നിങ്ങൾ ഇത് കറുപ്പിലേക്ക് കണക്റ്റുചെയ്യുന്നു പൊതുവായത് സമാനമാണ് ഇതാണ് നിങ്ങളുടെ മൈനസ് 14 നോബ് ക്രമീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് 15 ആക്കി മാറ്റാൻ കഴിയും കൂടാതെ നിങ്ങൾക്ക് 15 വോൾട്ടിനടുത്ത് വരികയും ചെയ്യാം ഇപ്പോൾ നമുക്കറിയാമെങ്കിൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ 741 ൽ നമ്മൾ പ്ലസ് 15 പ്രയോഗിക്കുന്നു നമ്മൾ മൈനസ് 15 പ്രയോഗിക്കുന്നു അതാണ് നിങ്ങളുടെ ഓപ്പറേഷൻ ആംപ്ലിഫയർ സർക്യൂട്ടിന് നൽകിയ ബയാസ് വോൾട്ടേജ് എന്നിരുന്നാലും ഇത് എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ ഡിസി വോൾട്ടേജ് ഓപ്പറേഷൻ ആംപ്ലിഫയറുകളിൽ അല്ലെങ്കിൽ ഡിസി പവർ സപ്ലൈ ആവശ്യമായ ഏതെങ്കിലും സർക്യൂട്ടിലേക്ക് എങ്ങനെ പ്രയോഗിക്കാം നിങ്ങളുടെ ഡിസി പവർ സപ്ലൈ ആയ ഉപകരണമാണിത് ഇപ്പോൾ ഈ ഏറ്റവും പുതിയ പതിപ്പ് നമുക്ക് നോക്കാം ഇവിടെ ഇടത് നമുക്ക് മൂല്യം കാണാനാകും വലത്ത് നമുക്ക് കാണാൻ കഴിയാത്തതിനാൽ ഇവിടെ ഒരു മൾട്ടിമീറ്റർ കണക്റ്റുചെയ്യേണ്ടതുണ്ട് നമ്മൾക്ക് ഒരു മൾട്ടിമീറ്റർ ശരിക്കും ബന്ധിപ്പിക്കേണ്ടതില്ല ഇടതുവശത്ത് നമ്മൾ ഇവിടെ നോക്കുന്ന ഏത് മൂല്യവും നമ്മൾ മൾട്ടിമീറ്ററിലേക്ക് നോക്കുന്നതിന് സമാനമാണോ അത് അടുത്തായിരിക്കും ഈ സാഹചര്യത്തിൽ വലത് ഡിസ്പ്ലേ ഇല്ല എന്നിരുന്നാലും ഇത് ഇടത് വളരെ വലുതും ഉയർത്താൻ ഭാരമുള്ളതുമാണെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ ഞാൻ വീണ്ടും ഉയർത്തി എന്താണ് അതിൽ പ്രശ്നം അത് ഓണായിരിക്കുമ്പോൾ ഞാൻ അത് ഉയർത്തി പവർ ഓണായിരിക്കുമ്പോൾ നിങ്ങൾ ഒരു ഉപകരണവും ഉയർത്തരുത് നിങ്ങൾ പവർ ഓഫ് ചെയ്യണം സാധ്യമെങ്കിൽ ഉപകരണങ്ങൾ വിച്ഛേദിക്കുക തുടർന്ന് നിങ്ങൾക്ക് അത് ഉയർത്താം അതിനാൽ ഇവ കനത്ത ഉപകരണങ്ങളാണ് എന്തുകൊണ്ടാണ് ഇത് വളരെ വലുതായതു കാരണം ഈ പ്രത്യേക ഉപകരണത്തിലേക്ക് നിങ്ങൾ പ്രയോഗിക്കുന്ന സപ്ലൈ വോൾട്ടേജ് 230 വോൾട്ട് എസിയാണ് ഞാൻ ഈ 230 വോൾട്ടുകളെ 15 വോൾട്ടിലേക്ക് പരിവർത്തനം ചെയ്യുന്നു അതിനർത്ഥം ഞാൻ ഒരു ട്രാൻസ്ഫോർമർ എന്ന ഉപകരണം ഉപയോഗിക്കേണ്ടതുണ്ട് എന്നാണു ആദ്യം ട്രാൻസ്ഫോർമർ എന്തു ചെയ്യും ഇത് നിങ്ങളുടെ എസിയെ പരിവർത്തനം ചെയ്യും അല്ലെങ്കിൽ 230 വോൾട്ട് ആയ എസിയെ കുറഞ്ഞ വോൾട്ടേജിലേക്കും കുറയ്ക്കും അപ്പോൾ നമുക്ക് മറ്റൊരു സർക്യൂട്ട് ഉപയോഗിക്കണം അല്ലേ ഈ ട്രാൻസ്ഫോർമറും മറ്റ് സർക്യൂട്ടും ഉപയോഗിച്ച് നമ്മൾക്ക് നിങ്ങളുടെ എസി ഡിസിയിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും എന്താണ് ആ സർക്യൂട്ട് ഇത് ഒരു റക്റ്റിഫയർ ആണ് ഇപ്പോൾ നിരവധി തരം റക്റ്റിഫയറുകളുണ്ട് അതിനാൽ ഞാൻ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഓരോ തവണയും ഞാൻ ഓരോ വാക്കും ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ പോയി അത് ഏത് തരം റക്റ്റിഫയറുകളാണെന്ന് കാണേണ്ടതുണ്ട് കാരണം ഇത് ഈ പ്രത്യേക പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതല്ല അതിനാൽ ഞാൻ റക്റ്റിഫയർ എന്ന് പറയുമ്പോൾ ഏത് തരം റക്റ്റിഫയർ ഹാഫ് റക്റ്റിഫയർ ഫുൾ റക്റ്റിഫയർ അല്ലെങ്കിൽ മറ്റൊരു റക്റ്റിഫയർ എന്താണ് ട്രാൻസ്ഫോർമർ സ്റ്റെപ്പ് down ചെയ്യണോ അതോ ട്രാൻസ്ഫോർമർ സ്റ്റെപ്പ് അപ്പ് ചെയ്യണോ അതിനാൽ ഇവിടെ നമ്മൾ അത് സ്റ്റെപ്പ് down ചെയ്യുകയാണ് ഇനി എന്താണ് എസി വോൾട്ടേജ് എസി വോൾട്ടേജ് സൈൻ വേവ് ആണ് അല്ലേ 230 വോൾട്ട് എസി 50 ഹെർട്സ് ആവൃത്തി നമ്മൾ ചില വോൾട്ടേജിലേക്ക് ചുവടുവെക്കുന്നു അത് ഇപ്പോഴും എസി ആണ് അതിനാൽ നമ്മൾ എസി ഘടകം നീക്കംചെയ്യണം നമ്മൾ അതിനെ ഡിസി ആക്കണം അതിനാൽ നമ്മൾ ഫിൽട്ടർ ചെയ്യണം ഞാൻ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് ഡിസി വൈദ്യുതി വിതരണം അവിടെ വോൾട്ടേജ് എന്താണെന്ന് നമ്മൾക്ക് കാണാൻ കഴിയില്ല കറന്റ് എന്താണെന്ന് നമ്മൾക്ക് കാണാൻ കഴിയില്ല അതിനാൽ എന്താണ് ഒരു ബദൽ മാർഗം നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിക്കാം ഇനി നമുക്ക് മറ്റൊന്നിലേക്ക് പോകാം ഇത് ഇടത് വളരെ വലുതാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ മുമ്പത്തേതിനേക്കാൾ വലുതാണ് ഇത് കാരണം ഇപ്പോൾ നമ്മൾക്ക് രണ്ട് വ്യത്യസ്ത ഉറവിടങ്ങളുണ്ട് ഇവിടെ നിങ്ങൾ കാണുന്നു അത് നമ്മൾക്ക് ഇവിടെ കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ apply ചെയ്യാം ഇത് നിയന്ത്രിത ഡിസി ലീനിയർ പവർ സപ്ലൈ ആണ് ലീനിയർ റെഗുലേറ്റഡ് എന്നതിനർത്ഥം നിങ്ങൾക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയും ഇത് ഒരു ഡിസി വോൾട്ടേജ് ലീനിയർ പവർ സപ്ലൈ ആണ് നമ്മൾ വോൾട്ടേജ് വർദ്ധിപ്പിക്കുമ്പോൾ രേഖീയമായി വർദ്ധിക്കുന്നു എന്നാൽ വോൾട്ടേജും വൈദ്യുതധാരയും രേഖീയ ബന്ധമുണ്ടെന്ന് ഇതിനർത്ഥമില്ല കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ലോഡിനെ ആശ്രയിച്ച് ആയിരിക്കും കറ്ണ്ടിലെ മാറ്റങ്ങൾ ഇപ്പോൾ ഇത് ആരംഭിക്കുന്നതിന് ആദ്യം ഓരോ വിഭാഗവും നോക്കാം തുടർന്ന് ഈ പ്രത്യേക ഡിസി വൈദ്യുതി വിതരണത്തിന്റെ പങ്ക് എന്താണെന്ന് നമുക്ക് കാണാം അതിനാൽ ഈ പ്രത്യേക ഡിസി വൈദ്യുതി വിതരണത്തിന് ഞാൻ വീണ്ടും വൈദ്യുതി നൽകുന്നു ഞാൻ അത് ഇവിടെ നൽകി ഇപ്പോൾ നമ്മൾക്ക് ഇത് ഓണാക്കാം നിങ്ങൾക്ക് ഇത് സ്വിച്ച് ചെയ്യാമോ മികച്ചത് നിങ്ങൾ കാണുന്നതെന്താണ് ഇവിടെ കറന്റ് 0 ആണ് കാരണം ലോഡ് കണക്റ്റുചെയ്തിട്ടില്ല അതിനാൽ ഇവിടെ കറന്റ് 0 ആണ് എന്താണ് പവർ പവർ അല്ലെങ്കിൽ വോൾട്ടേജ് 0 വോൾട്ട് അല്ലെങ്കിൽ 0 2 വോൾട്ട് ആണ് ഇവിടെ ഇത് 5 22 വോൾട്ട് ആണ് ഇപ്പോൾ നമുക്ക് ഒരു വിഭാഗം മാത്രം നോക്കാം അതിനാൽ നിങ്ങൾക്ക് ഇവിടെ വളരെ വ്യക്തമായി കാണാൻ കഴിയുമെങ്കിൽ എന്താണ് എഴുതിയിരിക്കുന്നത് 0 മുതൽ 30 വോൾട്ടും 3 ആമ്പിയറും അതായത് പരമാവധി വൈദ്യുതധാര 3 ആമ്പിയർ ആകാം ഇത് 4 ആമ്പിയറുകളാണെങ്കിൽ എന്ത് സംഭവിക്കും ഇത് കത്തും അത് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല അതിനാൽ പരമാവധി 3 ആമ്പിയർ 0 മുതൽ 30 വോൾട്ട് വരെ വോൾട്ടേജ് നിങ്ങൾക്ക് മാറ്റാൻ കഴിയും ഇപ്പോൾ ഇത് എന്താണ് ഇത് സ്ഥിരമായ വോൾട്ടേജാണ് CV ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു സ്ഥിരമായ കറന്റിനായി ചുവപ്പ് നിറമുള്ള LED CC നിലവിലുണ്ട് അതിനാൽ ഇതിനർത്ഥം വോൾട്ടേജിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് മാറ്റാനോ മികച്ച രീതിയിൽ ട്യൂൺ ചെയ്യാനോ കഴിയും എന്നാണു കറന്റ്ൻറെ കാര്യത്തിലും നിങ്ങൾക്ക് കോഴ്സ് മാറ്റാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ട്യൂൺ ചെയ്യാം അതിനാൽ ഈ കോഴ്സും പിഴയും എന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ കോഴ്സ് വോൾട്ടേജ് മാറ്റുകയാണെങ്കിൽ അത് മാറുന്നത് വേഗത്തിൽ നിങ്ങൾക്ക് കാണാനാകും കൂടാതെ നിങ്ങൾക്ക് 2 3 4 5 എന്നിവയിൽ നിന്ന് വോൾട്ടേജ് നേടാനാകും എനിക്ക് ഇത് സാവധാനം ട്യൂൺ ചെയ്യണമെങ്കിൽ 5 4 5 5 5 6 5 7 കാണുക അതിനാൽ കോഴ്സിന് നിങ്ങൾക്ക് ഈ മികച്ച ട്യൂണിംഗ് നൽകാൻ കഴിയില്ല ഒരു ഡിസി വൈദ്യുതി വിതരണത്തിൽ നിന്ന് നമുക്ക് നേടാനാകുന്ന ഏറ്റവും മികച്ച ട്യൂണിംഗാണ് ഈ ട്യൂണിംഗ് ഇപ്പോൾ വീണ്ടും എന്താണ് അത് ചുവപ്പ് കറുപ്പ് മധ്യഭാഗത്തെ നോബുകൾ ഉണ്ട് നിങ്ങൾ നോക്കിയാൽ പ്ലസ് 15 വോൾട്ട് 2 ആമ്പിയർ കോമൺ മൈനസ് 15 വോൾട്ട് എന്നിങ്ങനെ ഉണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ടതിന് സമാനമാണ് അതിനാൽ ആദ്യം നമുക്ക് വോൾട്ടേജ് കാണാം മൾട്ടിമീറ്റർ ഉപയോഗിച്ച് വോൾട്ടേജ് അളക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മൾട്ടിമീറ്റർ എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചുവന്ന പേടകത്തെ ചുവപ്പും കറുപ്പിനെ കറുപ്പും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ എന്താണ് കാണിക്കുന്നത് ഇത് ഡിസി വൈദ്യുതി വിതരണത്തിലാണോ 93 5 92 എന്നാണു കാണിക്കുന്നത് അതിനാൽ 5 9 5 92 വളരെ അടുത്താണ് അല്ലെങ്കിൽ ഇത് കൂടുതൽ കൃത്യമാണ് കാരണം ഇത് 2 അക്കത്തിന് തുല്യമാണ് അതിനാൽ 5 92 വോൾട്ട് എന്നും പറയാം എന്താണ് കറന്റ് കറന്റ്0 മറ്റൊന്നിന്റെ കാര്യമോ ഇത് 5 22 വോൾട്ടേജാണ് ചുവന്ന പേടകത്തെ ചുവപ്പ് കറുപ്പിനെ കറുപ്പ് എന്നിവയുമായി അദ്ദേഹം എങ്ങനെ ബന്ധിപ്പിക്കുന്നുവെന്ന് കാണുക നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും 21 ശരിയല്ലേ 21 വളരെ അടുത്തത് മികച്ചതും ആണ് ഇപ്പോൾ നമ്മൾ അവസാനമായി കണ്ടതിന് സമാനമായി പ്ലസ് 15 വോൾട്ടുകളും മൈനസ് 15 വോൾട്ടും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് 15 വോൾട്ടുകൾ ബന്ധിപ്പിക്കാൻ കഴിയും അതിനാൽ ഇപ്പോൾ ഇത് സ്ഥിരമാണ് 15 0 ആണ് ഇതിനകം തന്നെ ഇത് മാറ്റേണ്ട ആവശ്യമില്ല മൈനസ് 15 വോൾട്ടിനായി നിങ്ങളുടെ ചുവന്ന പ്രോബിനെ ചുവപ്പിലേക്ക് ബന്ധിപ്പിക്കുക നിങ്ങൾക്ക് മൈനസ് 15 വോൾട്ട് കാണാൻ കഴിയും പ്രവർത്തന ആംപ്ലിഫയറുകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ടെർമിനലുകൾ നേരിട്ട് ഉപയോഗിക്കാനും പ്ലസ് 15 മൈനസ് 15 വോൾട്ട് പ്രയോഗിക്കാനും കഴിയും മറ്റൊരു കാര്യം നമുക്ക് 2 വോൾട്ടേജ് സ്രോതസ്സുകൾ ഉപയോഗിക്കാം എന്നതാണ് നമ്മൾക്ക് പ്ലസ് 15 മൈനസ് 15 പ്രയോഗിക്കാൻ കഴിയും ഈ ഡിസി വൈദ്യുതി വിതരണത്തിന്റെ പ്രയോജനം നമ്മൾക്ക് ഒന്നിലധികം സർക്യൂട്ടുകൾ ഉപയോഗിക്കാമെന്നതാണ് നിങ്ങൾക്ക് ഇത് ഒരു ഉറവിടമായി ഉപയോഗിക്കാം ഇത് പ്രാദേശികമായി നിർമ്മിക്കുന്ന ഡിസി വൈദ്യുതി വിതരണമാണ് പക്ഷേ വാസ്തവത്തിൽ 2 ഗുണങ്ങളുണ്ട് ഒന്ന് ഈ ഭാഗത്ത് നിങ്ങൾ കണ്ടാൽ 0 മുതൽ 30 വോൾട്ട് 3 ആമ്പിയർ വരെ നിങ്ങൾ മറുവശത്തേക്ക് പോയാൽ പരമാവധി 0 മുതൽ 5 വോൾട്ട് വരെ 1 5 ആമ്പിയർ ആണ് നിങ്ങൾക്ക് പ്ലസ് 15 മൈനസ് 15 പ്രയോഗിക്കാൻ കഴിയും ഇത് മറ്റൊരു നേട്ടമാണ് അതിനർത്ഥം നിങ്ങൾക്ക് ഒന്നിലധികം സർക്യൂട്ടുകൾ ഉപയോഗിക്കാൻ കഴിയും ഇതാണ് നിങ്ങളുടെ ഡിസി വൈദ്യുതി വിതരണം അർത്ഥമാക്കുന്നത് അതിനാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നിലവിലെ നോബ് മൂല്യം എന്തായിരിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ എല്ലായ്പ്പോഴും അത് പരമാവധി വർദ്ധിപ്പിക്കുക എല്ലായ്പ്പോഴും ഇത് പരമാവധി വർദ്ധിപ്പിക്കുക അത് നിങ്ങളുടെ സർക്യൂട്ട് സംരക്ഷിക്കും നിങ്ങൾ ഏതെങ്കിലും സർക്യൂട്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ എല്ലായ്പ്പോഴും പരമാവധി വർദ്ധിപ്പിക്കുക ഏതെങ്കിലും ഇലക്ട്രോണിക് സർക്യൂട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ ഡിസി പവർ സപ്ലൈ ഉപയോഗിക്കുമ്പോൾ അത് പരമാവധി വർദ്ധിപ്പിക്കുക അതിനാൽ ഇതെല്ലാം നിങ്ങളുടെ ഡിസി വൈദ്യുതി വിതരണത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ കണ്ടത് പഴയ പതിപ്പാണ് മറ്റൊന്ന് നമ്മൾ കണ്ടത് ഒരു പുതിയ പതിപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് പതിപ്പിലും ഡിസി വൈദ്യുതി വിതരണം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതാണ് കാര്യം വോൾട്ടേജ് എന്താണെന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് ഒരു മൾട്ടിമീറ്റർ ആവശ്യമാണ് അതിനാൽ ഈ പ്രത്യേക പ്രഭാഷണം നമ്മൾ ഇവിടെ നിർത്തും അടുത്ത പ്രഭാഷണത്തിൽ നമുക്ക് ഫംഗ്ഷൻ ജനറേറ്റർ കാണാം അനലോഗ് സർക്യൂട്ട് പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അതും നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്നു അതിനാൽ ഇത് നിങ്ങളുടെ ഡിസി വൈദ്യുതി വിതരണമാണ് അടുത്ത മോഡ്യൂളിൽ നമ്മൾ ഫംഗ്ഷൻ ജനറേറ്റർ കാണും അതിനാൽ ഇതാണ് ഈ പ്രഭാഷണത്തിന്റെ അവസാനം വളരെയധികം നന്ദി